ഹലോ സെക്യൂർ സിസ്റ്റംസ് എൻജിനീയറിങ്ങിന്റെ ഈ വീഡിയോ ലെക്ച്ചറിലേക്കു സ്വാഗതം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് FANCI എന്നൊരു പ്രത്യേക ടെക്നിക്ക് ആണ് ഹാർഡ് വെയർ ഡിസൈൻ ഉപയോഗിക്കുന്ന IP ൽ ഹാർഡ് വെയർ ട്രോജൻ അടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ടെക്നിക്ക് ആണിത് അത് കൊണ്ട് തന്നെ ഈ പേപ്പർ ഐഡെന്റിഫിക്കേഷൻ ഓഫ് സ്റ്റെൽതി മലീഷ്യസ് ലോജിക് എന്നാണറിയപ്പെടുന്നത് ഈ വീഡിയോയിൽ ചില സ്ലൈഡ്സ് ആദം വേക്സ്മാന്റെ CCS ടാക്കിൽ നിന്ന് കടം എടുത്തതാണ് ആദം വേക്സ്മാൻ തന്നെയാണ് ആദ്യത്തെ ഓതർ ആയി ഈ പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വീഡിയോ ലെക്ച്ചർ ഒരു ഹാർഡ് വെയർ IC യുടെ മുഴുവൻ ഡിസൈൻ മാനുഫാക്ച്ചർ പ്രോസസ്സിൽ ഉള്ള പല ഘട്ടങ്ങളിൽ പല രീതിയിൽ ട്രോജൻ ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു അതായത് ഒരു IC ഡിസൈൻ ഫ്ളോയിൽ അകെ വിശ്വസിക്കാൻ പറ്റുന്ന ഘടകം സ്പെസിഫിക്കേഷനും ഡിവൈസ് ഫാബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷമുള്ള പാക്കേജ്ഡ് ടെസ്റ്റിങ്ങും മോനിറ്ററിങ്ങും ആണ് അതുകൊണ്ട് ഐസി ഡിസൈൻ ലൈഫ് സൈക്കിലിന്റെ എല്ലാ സ്റ്റേജുകളും ട്രോജൻ ഉള്കൊള്ളിക്കാവുന്ന സ്പോട്ടുകൾ ആണ് ഇവിടെ നമ്മൾ തേർഡ് പാർട്ടി ഐപി കോറുകളിൽ ട്രോജൻ ഉള്കൊള്ളിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കമ്പനിക്ക് ഒരു ഹാർഡ്വെയർ ഐ സി ഡിസൈൻ ചെയ്യേണ്ടതായി വരുമ്പോൾ ഒരു ഐ സിയുടെ എല്ലാ കംപോണേന്റ്സും അവർ കോഡ് ചെയ്യില്ല പകരം സിസ്റ്റം ഓൺ ചിപ്പ് കോൺസെപ്റ്റ ആണ് ഉപയോഗിക്കുന്നത് അതായത് ഐപി കോറുകൾ അവർ പല പല വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എല്ലാം കൂടി ഒരു സിംഗിൾ ചിപ്പ് ആയി സംയോചിപ്പിക്കുക ആണ് ചെയ്യുന്നത് അതായതു ഇപ്പോൾ കമ്പനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഐസി ഡിസൈൻ ചെയ്യണം എന്നിരിക്കട്ടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഐസിക്ക് പ്രോസസ്സർ കോർ ഡിഎ സ്പി കോർ സീരിയൽ പോർട്ട് പോലെയുള്ള ഐ ഒ യൂണിറ്സ് ട്രാൻസ്സിവേറുകൾ ഓഡിയോ ഇന്പുട് കോഡെക് അങ്ങനെ പല പല കംപോണേന്റ്സുകൾ ഉണ്ട് ഇവിടെ കമ്പനി ചെയ്യുന്നത് ഈ കംപോണേന്റ്സിന്റെ ഒക്കെ ഐപി കോറുകളും ഒരു ജനറൽ പര്പസ് പ്രോസസ്സർ ഐപി കോറും പല പല മാനുഫാക്ചറിങ് എന്റിറ്റിസ്ന്റെ കയ്യിൽ നിന്ന് വാങ്ങുക എന്നതാണ് എന്നിട്ടു എല്ലാ ഐപി കോറുകളും ഡിസൈനിലേക്കു സംയോചിപ്പിച്ചു ഐസി ഉണ്ടാക്കിയെടുക്കും ഡെവലൊപ്മെന്റിന് വേണ്ടി വരുന്ന സമയം വളരെയധികം കുറയും എന്നതാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം മാത്രമല്ല ഇത് ചിലവ് വളരെയധികം കുറക്കുകയും ചെയ്യും എങ്ങനെയാണെന്ന് വച്ചാൽ കമ്പനിക്ക് ഐസിക്കു ആവശ്യമായ എല്ലാ കംപോണേന്റ്സും ഡെവലപ്പ് ചെയ്യാനാവശ്യമായ ഡെവലപ്പേഴ്സിനെ വെക്കാനായി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല ലോങ്ങ് റണ്ണിൽ ഇതാണ് കോസ്റ്റ കുറക്കാനും ഡെവലൊപ്മെന്റ് സമയം കുറക്കാനും പറ്റിയ ഗുണപ്രദമായ വഴി നമ്മൾ ഇവിടെ ഓരോ ഐപി കോറിലും ഒരു ഹാർഡ്വെയർ ട്രോജൻ അടങ്ങിയിരിക്കുന്നുണ്ടെന്ന രീതിയിലാണ് പരിഗണിക്കുന്നത് ഓരോ ഐപി കോറും വെത്യസ്തമായ പല പല തേർഡ് പാർട്ടി ഐപി ഹൌസുകളാൽ ഡിസൈൻ ചെയ്യപ്പെട്ടതിനാൽ ഓരോന്നിലും ട്രോജന് അടനുണ്ടാവാൻ സാധ്യതയുണ്ട് സ്ലൈഡ് കാണുക സമയം 441 ഈ തേർഡ് പാർട്ടി ഐപി ഡിസൈൻ കമ്പനികളെ വിശ്വസിക്കാൻ കഴിയില്ല അതിനാൽ മലീഷ്യസ് ട്രോജന് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഐസി ആവശ്യമുള്ള കമ്പനികൾക്ക് ഐപി കോറിന്റെ ആയിരകണക്കിന് ലൈൻ നോക്കി ട്രിഗറുകളെയും പെലോഡിനെയും കണ്ടെത്തുക എന്നത് അസാധ്യമാണ് സങ്കീർണമായ ഒരു കോറിൽ പതിനായിരക്കണക്കിന് എച് ഡി ൽ ലൈൻ കോഡ് ഉള്ളതിനാൽ ഇവക്കിടയിൽ ഒരു ചെറിയ സബ്സെറ്റ് കോഡ് ആയിരിക്കും ഹാർഡ്വെയർ കോറിന്റേത് അതുകൊണ്ടു ഒരു ഐപി കോറിന്റെ കോഡ് വെറുതെ നോക്കികൊണ്ട് അതിൽ ട്രോജൻറെ സാനിധ്യം കണ്ടുപിടിക്കാൻ കഴിയില്ല സ്ലൈഡ് കാണുക സമയം 536 അതുകൊണ്ട് ഫാൻസി ഒരു ഓട്ടോമേറ്റഡ് ഫ്രെയിംവർക് നൽകുക എന്നതാണ് ചെയ്യുന്നത് അത് ട്രോജന് അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ ഹൈലൈറ് ചെയ്യുന്നു ഈ ഭാഗങ്ങൾ നോക്കി ട്രോജനെ കണ്ടെത്താൻ ടെസ്റ്ററിനെ സഹായിക്കുകയാണിതിന്റെ ലക്ഷ്യം സ്ലൈഡ് കാണുക സമയം 611 നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ ഹാർഡ്വെയർ ട്രോജന്റെയും സ്വഭാവംഅത് ചെറുതായിരിക്കും എന്നതാന് അതായതു ഐസിയുടെ ഡിസൈനിൽ വളരെ ചെറിയ ഒരു ഏരിയയിൽ അടങ്ങിയിരിക്കുന്ന കുറച്ചു ലൈൻ കോഡ് രാണ്ടാമതായി അത് സ്റ്റേൽത്തി ആണ് അതായതു പാസ്സീവ് അവ ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കില്ല പ്രസ്തുത ട്രിഗർ വന്നാൽ മാത്രെമേ അത് ആക്ടിവേറ്റഡ് ആകൂ സ്ലൈഡ് കാണുക സമയം 653 ചെറുതും കപടവുമാണെന്ന രണ്ടു സ്വഭാവങ്ങളാണ് ഐസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രോജൻ കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കാനുള്ള കാരണം ഐസി യുടെ വളരെയധികം ഭാഗങ്ങളിൽ കവറേജ് വരുന്ന രീതിയിലാണ് ടെസ്റ്റിംഗ് അൽഗോരിതങ്ങൾ ഉണ്ടാക്കുന്നത് 99 ശതമാനം കോവേജ് തരുന്ന വളരെ ഫലപ്രദമായ ധരാളം അൽഗോരിതങ്ങൾ ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ഐസി യും 99 ശതമാനം ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ടെസ്റ്റ് ചെയ്യപ്പെടാത്ത ബാക്കിയുള്ള ഈ 1 ശതമാനം ഭാഗത്താണ് ഹാർഡ്വെയർ ട്രോജന് ഉണ്ടാകാൻ സാധ്യത ഈ ഗ്രാഫ് കാണിക്കുന്നത് കോഡിനുള്ളിൽ പലപല മേഖലകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനാണ് കാപട്യം ആക്ടിവിറ്റികൾക്കനുസരിച്ചു മാറിവരുന്നത് എന്നാണ് ഈ ഐപി യിൽ വളരെ ആക്റ്റീവ് ആയ മേഖലകൾ കപടം അല്ല ഫാൻസി മറ്റു ടെസ്റ്റിംഗ് മെക്കാനിസങ്ങളിൽ നിന്ന് വ്യത്യസ്താമാകുന്നത് അത് മറ്റ് മെക്കാനിസങ്ങൾ ശ്രദ്ധിക്കാത്ത ഈ മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് വളരെ സ്റ്റേൽത്തി ആയ സിഗ്നലുകളെ ഫാൻസി തിരിച്ചറിഞ് ഔട്ട്പുട്ട് ആയി തരും ഈ സിഗ്നലിൽ ആയിരിക്കും ഹാർഡ്വെയർ ട്രോജൻഉണ്ടായിരിക്കുക ഫാൾസ് നെഗറ്റീവ് ഉണ്ടാകാതെ നോക്കുക എന്നതാണ് ഫാൻസിയുടെ പരമപ്രദാനാമായ ലക്ഷ്യം അതായതു ഒരു ഹാർഡ്വെയർ ട്രോജൻ ഡിവൈസിൽ ഉണ്ടെങ്കിൽ അതിനെ ഫാൻസിക്ക് കണ്ടുപിടിക്കാൻ കഴിയണം കുറച്ചു ഫാൾസ് പോസിറ്റീവുകൾ സ്വീകാര്യം ആണ് അതായതു ഫാൻസി ട്രോജൻ ഉണ്ടെന്നു പ്രവചിച്ചിടത്തു ട്രോജൻ ഇല്ലാതിരിക്കുന്ന കേസുകൾ ഉണ്ടാകാം സ്ലൈഡ് കാണുക സമയം 914 കണ്ട്രോൾ വാല്യൂസ് ഉപയോഗിച്ചാണ് വളരെ വലിയ ഐപി കോഡിൽ നിന്ന് ഫാൻസി സ്റ്റേൽത്തി സിഗ്നലുകളെ തിറിച്ചറിയുന്നത് ഇവിടെ നമുക്ക് ഈയൊരു ഐപി കോറിന്റെ പ്രവർത്തനം നോക്കാം ഇത് എബിസിABC എന്നീ മൂന്ന് ഇൻപുട്ടുകൾ എടുത്തു ഓ എന്ന ഔട്ട്പുട്ട് തരുന്നു ഈ കാണുതാണ് ട്രൂത് ടേബിൾ ഇതിൽ ഇൻപുട്ട് എബിസി ABC ക്കനുസരിച്ചു ഔട്പുട്ടില് മാറ്റം വരുന്നു ഇതിൽ ഓരോ ഇൻപുട്ടും ഔട്പുട്ടിൽ എത്രെതോളം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നു കണ്ടെത്തലാണ് ഫാൻസി ചെയ്യുന്നത് സ്ലൈഡ് കാണുക സമയം 950 ഉദാഹരണത്തിന് ഇൻപുട്ട് എ ക്ക് 0 5 ആണ് ഫാൻസി ഔട്ട്പുട്ട് അയിത്തരുന്നത് അതായതു എ ക്ക് ഔട്പുട്ടിൽ 0 5 ൻറെ കണ്ട്രോൾ ആണുള്ളത് ഇത് കണ്ടുപിടിക്കാനായി ഫാൻസി ആദ്യം എല്ലാ ഇൻപുട്ട്കളും 0 ആക്കി വയ്ക്കുന്നു ബാക്കി രണ്ടു ഇൻപുട്ട്കൾ 0 ആക്കി നിർത്തിക്കൊണ്ട് എ 0 യിൽനിന്ന് 1 ആക്കി ഔട്ട്പുട്ട് വീക്ഷിക്കുന്നു ബി യും സി യും 0 ആയിരിക്കുമ്പോൾ എ യിൽ വരുന്ന മാറ്റം ഔട്പുട്ടിനെ ബാധിക്കുന്നു ട്രൂത് ടേബിളിൽ ഈ ഭാഗം നോക്കൂ ബി 0 യും സി 1 ഉം ആയിരിക്കുമ്പോൾ എ ക്ക് ഔട്പുട്ടിൽ ഒരു സ്വാധീനവും ഇല്ല അതായത് ബി സി ക്ക് ചില ഇൻപുട്ട് വാല്യൂകൾ വരുമ്പോൾ എ ക്ക് ഔട്പുട്ടിനെ സ്വാധീനിക്കാൻ കഴിയും മറ്റു ചില വാല്യൂകൾ വരുമ്പോൾ ഒരു സ്വാധീനവും ഇല്ല അതുകൊണ്ടു ഫാൻസി ശരിക്കും നോക്കുന്നത് ഇൻപുട്ട്എ ഔട്പുട്ടിനെ സ്വാധീനിക്കുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് ഈ നാലിൽ രണ്ട് ഇൻസ്റ്റൻസിൽ എ സ്വാധീനിക്കുന്നുണ്ട് 4 ൽ 2 അതായതു 0 5 കണ്ട്രോൾ ഉണ്ട് എ ക്ക് എന്നനുമാനിക്കാം ഇനി നമ്മൾ ഹാർഡ്വെയർ ഡിസൈനിലും ട്രൂത് ടേബിളിലും കുറച്ചു മാറ്റം വരുത്തുകയാണ് അതാണിവിടെ കാണുന്നത് ഇപ്പോൾ ഔട്പുട്ട് എ യുടെ വാല്യൂനനുസരിച്ചല്ല ഇപ്പോൾ ഔട്ട്പുട്ട് ഉദാഹരണത്തിന് എ ബി 0 യും സി 0 ഉം ആയിരിക്കുമ്പോൾ എ യുടെ വാല്യൂയിൽ മാറ്റം വരുത്തുമ്പോൾ ഔട്പുട്ടിൽ മാറ്റം കാണുന്നില്ല ആയതിനാൽ ഇപ്പോൾ എ അൺഅഫക്റ്റിങ് ഇൻപുട്ട് ആണെന്ന് പറയാം സ്ലൈഡ് കാണുക സമയം 1148 ഇനി നമുക്ക് ഹാർഡ്വെയർ ട്രോജൻ ട്രിഗർ ചെയ്യാനുള്ള കണ്ട്രോൾ വാല്യൂസ് നോക്കാം നമ്മൾ മുൻപത്തെ വിഡിയോയിൽ കണ്ടതു പോലുള്ള ചീറ്റ് കോഡ് ഉപയോഗച്ചു ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു കോമ്പിനേഷണൽ ഹാർഡ്വെയർ ട്രോജൻ ഏതാണ്ട് ഇതുപോലിരിക്കും ഇതിൽ ഈ ട്രിഗർ ഒരു സവിശേഷമായ ഇൻപുട്ടിനായി കാത്തിരിക്കും അല്ലെങ്കിൽ അഡ്രസ്സ് 0xDEADBEEF ആകുമ്പോൾ ട്രിഗർ 1 ആകും ഈ ട്രൂത് ടേബിൾ നോക്കിയാൽ അഡ്രസ്സ് 32 ബിറ്റ് ആണെന്ന് മനസിലാക്കാം അതായതു Ao മുതൽ A31 വരെ സിഗ്നലിനെ ട്രിഗർ ചെയ്യാൻ ഒരു ബിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഈ ട്രൂത് ടേബിളിൽ ഏതാണ്ടെല്ലാ റൌയിലും ട്രിഗർ വാല്യൂ 0 ആയാണ് ഇവിടെ നമ്മൾ കാണുന്നത് 0xDEADBEEF എന്ന ഒരേ ഒരു ഇൻപുട്ട് വാല്യൂ Ao മുതൽ A31 വരെ വരുമ്പോൾ മാത്രമേ ട്രിഗർ 1 ആകുകയുള്ളു ബാക്കിയെല്ലാ കേസിലും ട്രിഗർ 0 ആണ് അപ്പോൾ നമ്മൾ ഈ അഡ്രസ്സ് ലൈനുകൾക്ക് കണ്ട്രോൾ വല്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 16 കണ്ട്രോൾ വല്സ് ലഭിക്കും ഹാർഡ്വെയർ ട്രോജൻ ഇതുപോലൊരു കണ്ട്രോൾ വാല്യൂ ആയിരിക്കും ഉണ്ടാക്കുക ഇതാണ് ഫാൻസി തന്നിരിക്കുന്ന ഐപി കോറിൽ നിന്ന് കണ്ടെത്താൻ ശ്രെമിക്കുന്നത് ഒരു ലോ കണ്ട്രോൾ വാല്യൂ കാണിക്കുന്നത് സിഗ്നൽസ് വളരെയധികം കപടമാണെന്നാണ് അതായത് ഇതിൽ ഒരു ഹാർഡ്വെയർ ട്രോജനെ ട്രിഗർ ചെയ്യാനായി ഒരു ട്രിഗർ അടങ്ങിയിരിക്കുന്നുണ്ടാകും സ്ലൈഡ് കാണുക സമയം 1345 ഇനി നമുക്ക് മൾട്ടിപ്ളെക്സിറിന്റെ മറ്റൊരു ഉദാഹരണം നോക്കാം ഇത് എബിസിഡി എന്നീ നാലു ഇൻപുട്ടുകളും എസ്1എസ്2 എന്ന രണ്ടു സെലക്ട് ലൈനുകളും ഉള്ള ഒരു 4 x 1 മൾട്ടിപ്ളെക്സർ ആണ് എസ്1 എസ്2 വിന്റെ വാല്യൂസിനനുസരിച്ചു എബിസിഡി യിൽ ഒന്ന് ഔട്ട്പുട്ട് എം ലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നു നമുക്കതിന്റെ ട്രൂത് ടേബിൾ ഉണ്ടാക്കാനും ഈ സിഗ്നലുകൾക്ക് കണ്ട്രോൾ വാല്യൂസ് കണ്ടുപിടിക്കാനും സാധിക്കും ഇവിടെ മൊത്തത്തിൽ 426 ഇന്പുട് സിഗ്നൽസ് ആണുള്ളത് ഇവക്കെല്ലാത്തിനും എങ്ങനെയാണ് കണ്ട്രോൾ വാല്യൂസ് കണ്ടുപിടിക്കനതെന്ന് നോക്കാം എ ക്കു എം ഇൽ 32 ൽ 8 പ്രാവശ്യം കണ്ട്രോൾ ഉണ്ട് അതായതു കണ്ട്രോൾ വാല്യൂ 0 ഇതുപോലെ മറ്റു ഇൻപുട്ടുകളായ ബിസിഡി എസ്1എസ്2എന്നിവയുടെ വാല്യൂസ് യഥാക്രമം 0 25 0 25 0 25 0 5 0 5 എന്നിങ്ങനെ ആകുന്നു അതായത് എസ്1എസ്2 എന്നിവക്ക് 0 5 ഉം എബിസിഡി എന്നിവക്ക് 0 25 യും അതുകൊണ്ടുതന്നെ ഈ മൾട്ടിപ്ളെക്സിറിൽ ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടാകുക എന്നത് അസാധ്യം ആണ് സ്ലൈഡ് കാണുക സമയം 1531 ഇനി നമുക്ക് ഈ മൾട്ടിപ്ളെക്സിറിൽ ചെറിയൊരു രൂപമാറ്റം വരുത്തിനോക്കാം ഇതിൽ ഇപ്പോൾ രണ്ടു സെലക്ട് ലൈനിനു പകരം 65 എണ്ണം ഉണ്ടെന്നു വിചാരിക്കുക ആദ്യത്തെ രണ്ടെണ്ണം മുൻപത്തെ പോലെ എസ്1 ഉം എസ്2 ഉം പിന്നെ 63 എണ്ണം വേറെയും അവയ്ക്കും ലോജിക് 0 ഓ 1 ഓ പ്രൊഡ്യൂസ് ചെയ്യാം ഇനി നമുക്കൊരു മലീഷ്യസ് 4x1 മൾട്ടിപ്ളെക്സർ നോക്കാം മുൻപത്തെ മൾട്ടിപ്ളെക്സർ എടുത്തു ഒരു ട്രിഗർ സർക്യൂട് ചേർക്കുകയാണിവിടെ ചെയ്യുന്നത് ഈ ട്രിഗർ സർക്യൂട് 63 ഇന്പുട് എടുക്കും ഇവിടെയുള്ള ലോജിക് ട്രിഗറിന്റെ വാല്യൂവിനനുസരിച് 0 ഓ 1 ഓ ഔട്ട്പുട്ട് ചെയ്യും സാദാരണയായി പാസ്സീവ് മോഡിൽ ഈ ലോജിക്കിന്റെ ഔട്ട്പുട്ട് 0 അയരിക്കുംഅതായതു ഇത് സാദാരണ 4x1 മൾട്ടിപ്ളെക്സർ ആയി പ്രവർ ത്തിക്കും എസ്1എസ്2 വിന്റെ വാല്യൂസിനനുസരിച്ചു എബിസിഡി യിൽ ഒന്ന് ഔട്ട്പുട്ട് എം ലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുന്നു ഇപ്പോൾ ഈ കൂടുതലായി ചേർക്കപ്പെട്ട 63 സെലക്ട്ലൈൻസ്നനുസരിച് അതായതു എസ്1എസ്2 നനുസരിച്ചല്ലാതെ ഔട്ട്പുട്ട് 1 ആകും അപ്പോൾ ഇൻപുട്ട് ഇ എം ലേക്ക് സ്വിച്ച് ചെയ്യപ്പെടും ഇതാണ് നമ്മുടെ ഹാർഡ്വെയർ ട്രോജൻ ഇവിടെ നമുക്ക് ഒരു ട്രിഗർ ഉണ്ട് ഈ ഇ വാല്യൂ ആണ് ഔട്പുട്ടിലേക്കു ലീക്ക്ഡ് ആകുന്നത് ഇനി വീണ്ടും എല്ലാ ഇന്പുട്കൾക്കും കണ്ട്രോൾ വാല്യൂ കമ്പ്യൂട് ചെയ്തു നോക്കിയാൽ എബിസിഡി എന്നിവക്കിപ്പോളും 0 25 ആണെന്നും എസ്1 എസ്2 എന്നിവക്ക് 0 5 ആണെന്നും മനസിലാക്കാം എന്നിരുന്നാലും ഹാർഡ് വെയർ ട്രോജൻ മൂലം കൂടുതലായി ചേർക്കപ്പെട്ട ലൈനുകൾക്ക് 2 എന്ന കണ്ട്രോൾ വാല്യൂവും ഇന്പുട് E യ്ക്ക് 2 എന്ന കണ്ട്രോൾ വാല്യൂവും ആയിരിക്കും ഔട്ട്പുട്ട് M ൽ ഉണ്ടാവുക ഇതിൽ നിന്നും മനസിലാവുന്നത് ഇന്പുട് E യും S3 S66 അതായതു ഇവിടെ ഈ ചുവന്ന ലൈനുകളായി കാണിച്ചിരിക്കുന്നവ സ്റ്റേൽത്തി സിഗ്നൽസ് ആണ് അവ സങ്ങനെ ഉപയോഗിക്കപ്പെടാറില്ല പലപ്പോഴും ഇവ മൾട്ടിപ്ളെക്സർൻറെ സാദാരണ ഓപ്പറേഷന്റെ സമയത്തു ഇനാക്ടിവ് ആയിരിക്കും അതുകൊണ്ടു തന്നെ ഹാർഡ്വെയർ ട്രോജൻ ഉൾക്കൊള്ളിക്കാൻ ഇതൊരു പൊട്ടൻഷ്യൽ വെന്യു തന്നെ ആണ് ഇവിടെ ഈ പേപ്പറിൽ FANCI നിർദേശിക്കുന്നത് ഒരു ഹാർഡ്വെയർ സർക്യൂട്ടിലുള്ള സ്റ്റേൽത്തി സിഗ്നൽസിനെ തിരിച്ചറിയാൻ 3 ഹ്യുറിസ്റ്റിക്സ് മീൻ മീഡിയൻ പിന്നെ ഒരു ട്രിവിയലിറ്റി എന്ന് അറിയപ്പെടുന്ന ഒന്നും ഉപയോഗിക്കാൻ ആണ് ഈ മൂന്ന് മെട്രിക്കുകളിൽ ഓരോന്നും വെത്യസ്തമായ റിസൾട്ട് ആണ് തരിക മാത്രമല്ല അവ വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കും ആക്ടിവേറ്റ് ചെയ്യപ്പെടുക ഉദാഹരണത്തിന് മീഡിയൻ ഒരു ബാക്ടോർ കോണ്ടെസ്റ്റിൽ ലോ യോ അൺഅഫക്റ്റിങ് വയേർസൊ ഉള്ളപ്പോൾ പലപ്പോഴും സിറോക്ക് അടുത്തായിരിക്കും ട്രിഗർ ചെയ്യുക എന്നാൽ മീൻ ആണെങ്കിൽ കുറച്ചു ഡിപെൻഡൻസിസ് ഉണ്ടാവുകയും അതിലൊന്ന് അൺഅഫക്റ്റിങ് ആണെങ്കിൽ ഔട്ട്ലൈർസിനോട് സെൻസിറ്റീവ് ആയിരിക്കും എന്നാൽ ട്രിവിയാലിറ്റി എന്നത് വെക്ടറിന്റെ വാല്യൂസിന്റെ വെയ്റ്റഡ് ആവറേജ് ആണ് അതുകൊണ്ട്നിങ്ങള്ക്ക് ഈ മൂന്ന് മെട്രികുകൾ എങ്ങിനെ വെത്യാസപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ ക്കുറിച്ചുള്ള വിവരങ്ങൾക്കൊക്കെയായി വേറെ പഠനങ്ങൾ നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നമ്മുടെ മാലിഷ്യസ് മുൾട്ടിപ്ളെക്സർ ശ്രദ്ധിച്ചാൽ മീനിന്റെ സ്കോർ 0 03 ഉം ട്രിവിയാലിറ്റിയുടെ സ്കോർ 0 50 ഉം മീഡിയന് 2 ഉം ആണ് സ്കോർ എന്ന് കാണാം ഈ മീഡിയൻ ഈ സർക്യൂട്ടിൽ മലിഷ്യ സ്ബാക്ടോർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട് സ്ലൈഡ് കാണുക സമയം 1947 താഴെ കാണുന്ന പോലാണ് ഫാൻസിയുടെ മുഴുവനായ അൽഗോരിതം നമ്മൾ പറഞ്ഞ പോലെ ഐപി കോഡ് ലെവലിൽ ആണ് FANCI പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വേരിലോഗിലോ വി എച് ഡി എലിലോ പോലെ ആർ ടി എലിൽ എഴുതിയ വളരെ വലിയ ഒരു ഐപി കോർ നമുക്കുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ FANCI ഈ ആർ ടി എൽ ഇന്പുട് ആയി എടുത്തിട്ട് ഡിസൈനിലുള്ള എല്ലാ സസ്പിഷ്യസ് വായേഴ്സും കാണിച്ചു തരും ഇതാണ് ആ ഹാർഡ്വെയർ ട്രോജൻ ഉണ്ടാകാനിടയുള്ള സസ്സ്പീഷ്യസ് അല്ലെങ്കിൽ സ്റ്റേൽത്തി വയർ ഫാൾസ് നെഗറ്റീവ് ഇല്ല എന്നുള്ളതാണ് FANCI അൽഗോരിതത്തിന്റെ ഗ്യാരണ്ടി അതായത് ഈ ഐപിയിൽ ഒരു ട്രോജന്റെ സാനിധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും FANCI അത് കണ്ടു പിടിക്കും അപ്പോൾ താഴെ കാണുന്ന പോലാണ് ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നത് ഈ ഡിസൈനിലെ എല്ലാ മൊഡ്യുലുകൾക്ക് വേണ്ടിയുംആ മൊഡ്യുലുകളിലെ ഓരോ ഗേറ്റിനുവേണ്ടിയുംആ ഗേറ്റുകളിലെ ഓരോ വയറിനു വേണ്ടിയും ട്രൂത്ത് ടേബിൾ T ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഇന്പുട്ട് ലൈനിനും കണ്ട്രോൾ വാല്യൂസും കംപ്യുട്ട് ചെയ്തിട്ടുണ്ട് ഈ കണ്ട്രോൾ വാല്യൂസെല്ലാം ഒരു V എന്ന വെക്ടറിലേക്കു ആഡ് ചെയ്തിട്ട് ആ മൂന്ന് ഹ്യുറിസ്റ്റിക്സ് മീൻ മീഡിയൻ ട്രിവിയലിറ്റി എന്നിവ കണ്ടുപിടിക്കും ഈ ഹ്യുറിസ്റ്റിക്സിനനുസരിച് വെയേഴ്സ് സസ്പിഷ്യസ് ആണോ അല്ലയോ എന്ന് സെറ്റ് ചെയ്യും ഇത് വളരെ രസകരമായൊരു അൽഗോരിതം ആണ്ഐപി കോറിലുള്ള ഹാർഡ്വെയർ ട്രോജനെ കണ്ടുപിടിക്കാനുള്ള വളരെ സമർത്ഥമായ അൽഗോരിതം 2013 മുതൽ ഇതിൽ കാര്യമായ പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടു തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയ ബാക്ക്ഡോറിനെ പോലും ഇതിനു കണ്ടുപിടിക്കാൻ കഴിയും